വ്യാവസായിക ഓട്ടോമേഷൻ നിയന്ത്രണത്തിന്റെ 42 ാം പാഠത്തിലേക്ക് സ്വാഗതം ഈ പാഠത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂമാറ്റിക് സിസ്റ്റങ്ങളെ കുറിച്ചാണ് ആണ് അതിനാൽ പാഠം 41 ൽ നമ്മൾ കൂടുതൽ ന്യൂമാറ്റിക് ഘടകങ്ങൾ നോക്കും ന്യൂമാറ്റിക് ലോജിക് എന്ന് വിളിക്കുന്ന ഒരുതരം യുക്തി നമ്മൾ നോക്കും കൂടാതെ ചില നിയന്ത്രണ ഉപയോഗങ്ങൾ കാണുകയും ഒടുവിൽ ഹൈഡ്രോളിക് സിസ്റ്റങ്ങളുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് ചില സാധാരണ വാൽവ് നിർമ്മാണങ്ങൾ വരയ്ക്കാനും ആൻഡ് അല്ലെങ്കിൽ ഓർ ന്യൂമാറ്റിക് ലോജിക്കുകൾ വിവരിക്കാനും ദ്രുത എക്സ്ഹോസ്റ്റ് ഫ്ലോ വാൽവുകൾ പോലുള്ള ന്യൂമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേക തരം വാൽവുകളുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനും നിങ്ങൾക്ക് കഴിയും ന്യൂമാറ്റിക് ഹൈഡ്രോളിക് സിസ്റ്റങ്ങളുടെ താരതമ്യ യോഗ്യതകളും അപാകതകളും പരാമർശിക്കാൻഉം കൂടാതെ ചില നിയന്ത്രണ ഉപയോഗങ്ങൾ പരിചയപ്പെടുകയും ചെയ്യും അതിനാൽ ഞങ്ങൾ ഇതിനകം ഡയറക്ഷൻഅൽ വാൽവുകൾ കണ്ടു ഹൈഡ്രോളിക്സ്ലുലും അവ കണ്ടിട്ടുണ്ട് അതിനാൽ ഇവിടെ പുതിയതായി ഒന്നുമില്ല അതിനാൽ വാൽവ് യഥാർത്ഥത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇൻലെറ്റും ഔട്ട്ലെറ്റ് പോർട്ടുകളും കാണാൻ കഴിയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ സ്പ്രിംഗ് ഉണ്ടെന്ന് ശരിയായ പേന തിരഞ്ഞെടുക്കാം അതിനാൽ ഇതാണ് പൈലറ്റ് മർദ്ദം അതിനാൽ പൈലറ്റ് മർദ്ദം ഇല്ലാതിരിക്കുമ്പോൾ ഒരു സ്പ്രിങ് ഉണ്ട് ശരിയാണ് അതിനാൽ അത് സ്പ്രിംഗ് ലോഡുചെയ്തതാണ് അതിനാൽ പൈലറ്റ് സമ്മർദ്ദം ഇല്ലാതിരിക്കുമ്പോൾ ഈ സ്പ്രിംഗ് അതിനെ മുകളിലേക്ക് തള്ളിവിടാൻ പോകുന്നുവെന്നും ഇത് അടയ്ക്കാൻ പോകുന്നുവെന്നും കാണാൻ സാധിക്കും അതിനാൽ വാൽവ് ഇരുവശത്തും അടച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ചിഹ്നം ഇവിടെ കാണിച്ചിരിക്കുന്നത് പൈലറ്റ് മർദ്ദം പ്രയോഗിക്കുമ്പോൾ അത് താഴുകയും അതിനാൽ ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും ലളിതമായ ടു വേ വാൽവ് ആണ് ഇത് ഇനി നമുക്ക് ഒരു ത്രീ വേ വാൽവ് നോക്കാം അടിസ്ഥാനപരമായി ഇതിനെ രണ്ട് പോർട്ടുകൾ ഉണ്ട് ഒന്ന് വിതരണമാണ് മറ്റൊന്ന് എക്സോസ്റ്റ് ആണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇതും സ്പ്രിംഗ് ലോഡഡ് ആണ് അതിനാൽ പുഷ് ബട്ടൺ അമർത്താത്തപ്പോൾ ഈ വിതരണം നിൽക്കുകയും എക്സോസ്റ്റിലേക്ക് സിലിണ്ടർ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് അമർത്തുമ്പോൾ ഇത് തുറക്കുകയും ഇത് അടയുകയും ചെയ്യും ഇപ്പോൾ ഈ പോയിന്റുകൾ അടയ്ക്കുകയും വിതരണം ലഭിക്കുകയും ചെയ്യും എക്സോസ്റ്റുമായി ബന്ധംസ്ഥാപിക്കപ്പെടുകയും ചെയ്യും അതിനാൽ ഈ ദീർഘചതുരം ഈ സ്റ്റാൻഡേർഡുകൾ ഹൈഡ്രോളിക്സ് കോഡുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിനാൽ നമ്മൾ ഈ ഭാഗം വളരെ വേഗത്തിൽ പോകുന്നു അതിനാൽ നമുക്ക് ഒരു പ്രത്യേക തരം വാൽവ് ഉണ്ട് ഇതിനെ ദ്രുത എക്സ്ഹോസ്റ്റ് വാൽവ് എന്ന് വിളിക്കുന്നു ഇത് ആവശ്യമാണ് കാരണം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ന്യൂമാറ്റിക്സിൽ റിട്ടേൺ ലൈൻ ഉണ്ടാവില്ല അതിനാൽ വായു സാധാരണയായി അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നു ഇപ്പോൾ ചോദ്യം നേരത്തെ നിങ്ങൾ അത് അന്തരീക്ഷത്തിലേക്ക് വിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒരു ആക്യുവേറ്ററിലുടനീളമുള്ള സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ട്യൂബിംഗിലേക്ക് വായു ഓടിക്കുന്നതിന് വളരെയധികം സമ്മർദ്ദം ആവശ്യമില്ല എന്നതാകാം അതിനാൽ സിസ്റ്റത്തിന്റെ സമയ പ്രതികരണവും മെച്ചപ്പെടും അതിനാൽ നിങ്ങൾ ഡയറക്ഷൻഅൽ വാൽവിൽ വായു പുറത്തുവിടാത്തപ്പോൾ ഈ വാൽവുകൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് വായു ഡയറക്ഷണൽ വാൽവിലൂടെ നയിക്കപ്പെടുന്നു പക്ഷേ ദ്രുത എക്സ്ഹോസ്റ്റ് വാൽവ് ഉപയോഗിച്ച് ആക്ചൂവേറ്റ്റ്ററിൽ ലേക്ക് വിടുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നിർമ്മാണം കാണാൻ കഴിയും നിങ്ങൾ സിലിണ്ടറുകളിലേക്ക് സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവ സാധാരണയായി സിലിണ്ടറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് അടിസ്ഥാന സംവിധാനം ഇതാണ് സംവിധാനം അതിനാൽ ഇത് മുകളിലേക്ക് നീങ്ങുന്നു ഇത് തള്ളപ്പെടുമ്പോൾ ഇത് അടച്ചിരിക്കുകയാണ് ആണ് അതുകൊണ്ട് വായു പാത കാണിക്കുന്നു വായു സിലിണ്ടറിലേക്ക് ഒഴുകുന്നു ഇത് ഡിസിവിയിൽ നിന്നാണ് വരുന്നത് മറുവശത്ത് സിലിണ്ടറിൽ നിന്ന് തിരികെ വരുമ്പോൾ അത് ഡിസിവിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല അത് പുറത്തുവിടുന്നു ഇത് കാണുക ഇത് അമർത്തും അതിനാൽ ഇത് അടയ്ക്കുകയും വായു യഥാർത്ഥത്തിൽ സിലിണ്ടറിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഒഴുകുകയും ചെയ്യും അതിനാൽ ഇത് പെട്ടെന്ന് തന്നെ തീർന്നുപോകും അതിനാൽ അതായിരുന്നു ആശയം ഇപ്പോൾ ഇത് ഓടിക്കുന്ന ഒരു ആക്ചൂവേറ്റ്റ്ററാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ എന്താണ് സംഭവിക്കുന്നത് വായു ഒഴുകുന്നു ഇതാണ് ഡിസിവി കൂടാതെ വായു ഇതിലൂടെ കടന്നുപോകുകയും ആക്ചൂവേറ്റർ ഉയർത്തുകയും ചെയ്യുന്നു അതിനാൽ ആക്ചൂവേറ്റർ നീങ്ങുന്നു അത് നീങ്ങുമ്പോൾ വായുവിനെ പുറന്തള്ളുന്നു മർദ്ദം കാരണം ആണ് ഇത് വായുവിനെ പുറന്തള്ളുന്നത് എന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഈ മർദ്ദം ഈ വാൽവ് ഉയർത്തുമ്പോൾ അത് മാറാൻ പോകുന്നു നമ്മൾ മെക്കാനിസം കാണിച്ചതു പോലെ അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഇതുമായി കണക്റ്റുചെയ്ത് അവിടെത്തന്നെ നിശ്ശേഷീകരിക്കുക ഇത് യഥാർത്ഥത്തിൽ ഡിസിവിയിലേക്ക് വരേണ്ടതില്ല അതിനാൽ ഈ ട്യൂബിംഗ് മടക്ക പാതയ്ക്കായി ഉപയോഗിക്കില്ല വായു ഇവിടെത്തന്നെ തീർന്നുപോകുന്നു അതിനാൽ ഇതാണ് പ്രവർത്തനം ദ്രുത എക്സ്ഹോസ്റ്റ് വാൽവിന്റെ നിങ്ങൾക്ക് ഒരു സമന്വയ ഉദ്ദേശ്യമുണ്ട് നിങ്ങൾ ഒരു ആക്ചൂവേറ്റർ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നിനുപുറകെ ഒന്നായി നീങ്ങുന്ന മൂന്ന് വാൽവുകളുണ്ട് അതിനാൽ ഒന്നിനുപുറകെ ഒന്നായി എന്ന ഈ ആശയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ഈ വാൽവ് പ്രവർത്തനക്ഷമം ആയതിനുശേഷം ക്രമേണ വർദ്ധിച്ചുവരുന്ന സമയ കാലതാമസങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അങ്ങനെ അത് തീർന്നു ഇതൊരു സാധാരണ നിർമ്മാണമാണെന്ന് നിങ്ങൾക്കറിയാം മർദ്ദം സൃഷ്ടിക്കാൻ വായു ഒഴുകുന്നു എന്നതാണ് അടിസ്ഥാന ആശയം വാൽവിന്റെ യഥാർത്ഥ മാറ്റം നിങ്ങൾ പാതയിൽ ഒരു അറ സ്ഥാപിക്കുകയാണെങ്കിൽ സമ്മർദ്ദം വികസിപ്പിക്കാനും പ്രധാന വാൽവ് മാറ്റാനും കഴിയുന്നതിനുമുമ്പ് പൈലറ്റിൽ നിന്ന് വരുന്ന വായുവിന് ആ അറ നിറയ്ക്കാൻ കുറച്ച് സമയം ആവശ്യമാണ് അതിനാൽ സമയ കാലതാമസം ഉണ്ടാകും അതിനാൽ ഇപ്പോൾ ചേമ്പറിന്റെ വ്യാപ്തി അനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യസ്തമായ സമയ കാലതാമസം സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ യഥാർത്ഥത്തിൽ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതിനാൽ ഇതാണ് പൈലറ്റ് പോർട്ട് എന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ വായു വന്ന് ഈ അറയിൽ നിറയുന്നു അതിനാൽ ചേംബർ കാരണം മർദ്ദം പതുക്കെ കൂടുന്നു തുടർന്ന് അത് വാൽവ് മാറ്റുന്നു തുടർന്ന് അത് സ്പൂളിൽ സമ്മർദ്ദം ചെലുത്തുകയും അത് വാൽവ് മാറ്റുകയും ചെയ്യും അതിനാൽ ഇത് സമയ കാലതാമസം സൃഷ്ടിക്കുന്ന ഒരു അടിസ്ഥാന സംവിധാനമാണ് അതുപോലെ നിങ്ങൾക്ക് ഫ്ലോ കൺട്രോൾ വാൽവുകളുണ്ട് ഫ്ലോ കൺട്രോൾ വാൽവുകൾ പ്രധാനമായും ആക്ചൂവേറ്റർറിന്റെ നിയന്ത്രിത വേഗത കൈവരിക്കാൻ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ചും അത് ലോഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ അതിനാൽ നമ്മൾ ഹൈഡ്രോളിക്സിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയാം ചിലപ്പോൾ അത് പിൻവലിക്കുമ്പോൾ സമയം ലാഭിക്കാൻ ഉയർന്ന വേഗതയിൽ ആയിരിക്കണം എന്നാൽ അത് ലോഡ് എടുക്കുമ്പോൾ അത് കുറഞ്ഞ വേഗതയിലായിരിക്കണം ചിലപ്പോൾ പ്രവർത്തനത്തിൻറെ ഒരു ഭാഗം അത് ഒരു വേഗതയിലായിരിക്കാം പ്രവർത്തനത്തിന് അവസാനത്തിൽ ഇത് വേഗത കുറഞ്ഞതാകാം കാരണം ലോഡിന് സാധാരണഗതിയിൽ നിഷ്ക്രിയതയുണ്ട് നിങ്ങൾ ലോഡ് വളരെ വേഗത്തിൽ തള്ളുകയാണെങ്കിൽ വളരെയധികം ഗതികോർജ്ജം ലോഡിൽ അടിഞ്ഞു കൂടുകയും അത് പോയി എന്തെങ്കിലും ഇടിക്കുകയും ചെയ്യും അതിനാൽ സ്ട്രോക്കിന്റെ അവസാനത്തിൽ വേഗത കുറയ്ക്കേണ്ടതുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി ഫ്ലോ കൺട്രോൾ വാൽവ് സിലിണ്ടർ വേഗത നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ഈ ഫ്ലോ കൺട്രോൾ വാൽവ് ഇൻകമിംഗ് വായുവിന്റെ പാതയിലോ അല്ലെങ്കിൽ ഔട്ട്ഗോയിംഗിന്റെ സിലിണ്ടറിന്റെ മറ്റേ പകുതിയിൽ നിന്ന് പുറന്തള്ളുന്ന വായുവിന്റെ പാതയിലോ ശരി സാധാരണയായി ഒരു നേട്ടമുണ്ട് ഈ രണ്ട് കേസുകളെയും മീറ്റർ ഇൻ ഫ്ലോ കൺട്രോൾ എന്നും മീറ്റർ ഔട്ട് ഫ്ലോ കൺട്രോൾ എന്നും വിളിക്കുന്നു അതായത് മീറ്റർ ഇൻ നിങ്ങൾ ഇൻകമിംഗ് എയർ ഫ്ലോയിൽ ഫ്ലോ കൺട്രോൾ വാൽവ് ഇടുകയും മീറ്റർ ഔട്ട് ഫ്ലോ കൺട്രോൾ നിങ്ങൾ അത് ഔട്ട്ഗോയിംഗ് എയർ ഫ്ലോയിലും ലും ഇടുന്നു അതിനാൽ ആളുകൾ ചിലപ്പോൾ ഔട്ട്ഗോയിംഗ് ഫ്ലോയിൽ ഇടാൻ താൽപ്പര്യപ്പെടുന്നു കാരണം ഇത് ഒരു ബാക്ക് മർദ്ദം സൃഷ്ടിക്കുന്നു അത് വാൽവിന്റെ ചലനത്തെ സ്ഥിരമാക്കുന്നു അതായത് സിലിണ്ടറിന്റെ ചലനം അതിനാൽ സിലിണ്ടർ വേഗത്തിൽ നീങ്ങുന്ന നിമിഷം ഉടനടി ഫ്ലോ കൺട്രോൾ വാൽവ് സിലിണ്ടറിനെ ദുർബലപ്പെടുത്തുന്ന പ്രവണത സൃഷ്ടിക്കുന്നു അതിനാൽ ഇത് ഒരുതരം നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഇത് സിലിണ്ടർ ചലനത്തെ സ്ഥിരപ്പെടുത്തും അതിനാൽ അപ്ലിക്കേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നു അതായത് ദ്രാവകം ഒഴുകുമ്പോൾ അത് ഈ പാതയിലൂടെ ഒഴുകുന്നു അതിനാൽ ഫ്ലോ കൺട്രോൾ വാൽവിനെ മറികടക്കുന്ന ഒരു ചെക്ക് വാൽവ് ഉണ്ട് അതിനാൽ ഇത് ഇതിലേക്ക് പോകും അത് ഇവിടെയും പ്രവേശിക്കും പക്ഷേ അത് പുറത്തുവരുമ്പോൾ പുറംതള്ളുന്ന ദ്രാവകം ചെക്ക് വാൽവിലൂടെ കടന്നുപോകാൻ കഴിയില്ല കാരണം അതിന് ഈ വഴി ഒഴുകാൻ കഴിയില്ല അതിനാൽ ഇത് ഫ്ലോ കൺട്രോൾ വാൽവിലൂടെ കടന്നുപോകുകയും ഒടുവിൽ പുറത്താക്കപ്പെടുകയും ചെയ്യും അതിനാൽ ഈ ഫ്ലോ കൺട്രോൾ വാൽവ് ഉപയോഗിക്കുന്നതിനാൽ സിലിണ്ടർ ഈ വഴി നീങ്ങുമ്പോൾ ഒരു നിശ്ചിത വേഗതയുണ്ട് അതിന് നേടാൻ കഴിയുന്ന പരമാവധി വേഗത നിങ്ങൾക്ക് ഈ രണ്ട് വാൽവുകളിൽ വ്യത്യസ്ത ഫ്ലോ കൺട്രോൾ വാൽവുകളുടെ ക്രമീകരണം കാണാൻ കഴിയും അതിനാൽ രണ്ട് വശങ്ങളിൽ നിങ്ങൾക്ക് സിലിണ്ടറിന്റെ വ്യത്യസ്ത വേഗത കൈവരിക്കാൻ കഴിയും ശരി അതിനാൽ ഇത് സമാന ആശയമാണ് ചിലപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് വിവിധ വലുപ്പത്തിലുള്ള വിവിധതരം വസ്തുക്കളെ മുറുകെപ്പിടിക്കേണ്ട ഉദാഹരണം എടുക്കുക അതിനാൽ ചില വസ്തുക്കൾ വലുതായിരിക്കാം ചില വസ്തുക്കൾ ചെറുതായിരിക്കാം അതിനാൽ നിങ്ങൾക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ചൂവേറ്റ്ർ ഉണ്ട് അത് വസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ അത് തള്ളിവിടുന്നു അത് ഒരു നിശ്ചിത അളവിലുള്ള ക്ലാമ്പിംഗ് ഫോഴ്സുമായി ബന്ധിപ്പിക്കുന്നതുവരെ നിശ്ചിത അളവിലുള്ള ക്ലാമ്പിംഗ് ഫോഴ്സിന്റെ അളവ് നിർണ്ണയിക്കുന്നു അതിനാൽ വസ്തുക്കളുടെ അളവുകൾ അനുസരിച്ച് സ്ട്രോക്ക് ആവശ്യമാണ് അതിനുശേഷം ആവശ്യമായ ക്ലാമ്പിംഗ് ഫോഴ്സ് ലഭിക്കും അത് വസ്തുവിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ വസ്തു എ ആണെങ്കിൽ ഈ ഘട്ടത്തിൽ ക്ലാമ്പിംഗ് ഫോഴ്സ് മാത്രമേ മനസ്സിലാകൂ അത് ബി വലുപ്പമാണെങ്കിൽ ഈ ഘട്ടത്തിൽ ക്ലാമ്പിംഗ് ഫോഴ്സ് തിരിച്ചറിയപ്പെടും അതിന് സി ഉണ്ടെങ്കിൽ സിലിണ്ടർ എത്രത്തോളം നീങ്ങും ചേമ്പറിൽ വികസിപ്പിച്ച സമ്മർദ്ദത്തെ അടിസ്ഥാനമാക്കി അത് എവിടെ നിർത്തുമെന്ന് നിർണ്ണയിക്കേണ്ടതുണ്ട് അതിനാൽ സമ്മർദ്ദം വികസിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാക്ക്പ്രഷർ ചേംബറിൽ ഉണ്ടാകും ഇത് വീണ്ടും നീങ്ങാൻ കഴിയാത്തപ്പോൾ അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ചലനം പ്രതിരോധിക്കും അതിനാൽ ഒരു നിശ്ചിത സമ്മർദ്ദ വ്യത്യാസം ഉടലെടുക്കും ശരിയാണ് അതിനാൽ സാധാരണയായി ഈ മർദ്ദ വ്യത്യാസം ഉണ്ടാകില്ല സിലിണ്ടറിന് നീങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടാകും അതിനാൽ യഥാർത്ഥത്തിൽ നമുക്ക് മർദ്ദം മനസ്സിലാക്കാൻ കഴിയും തുടക്കത്തിൽ എന്താണ് സമ്മർദ്ദ വ്യത്യാസം സമ്മർദ്ദ വ്യത്യാസം ഒരേ കാര്യം ത്വരിതപ്പെടുത്താൻ മാത്രം മതി അതിനുശേഷം ആവശ്യമായ മർദ്ദ വ്യത്യാസം എന്താണ് ആവശ്യമായ മർദ്ദ വ്യത്യാസം ഒരു നിശ്ചിത അളവിലുള്ള ക്ലാമ്പിംഗ് ഫോഴ്സ് നേടുക മാത്രമാണ് ശരിയാണ് അതിനാൽ രണ്ട് പോർട്ടുകളിലുടനീളമുള്ള മർദ്ദ വ്യത്യാസം മനസ്സിലാക്കുന്നതിലൂടെ ഒരാൾക്ക് സിലിണ്ടർ പ്രവർത്തിപ്പിക്കാൻ കഴിയും അങ്ങനെ നിശ്ചിത അളവിലുള്ള ക്ലാമ്പിംഗ് ഫോഴ്സ് വികസിപ്പിച്ചതിന് ശേഷം നിർത്തും അതാണ് മുഴുവൻ ആശയം അതിനാൽ ഒരു നിശ്ചിത ഘട്ടത്തിൽ നിങ്ങൾക്ക് ഷിഫ്റ്റിംഗ് ആരംഭിക്കാമെന്നും ആ മർദ്ദം മാറുമ്പോൾ ഒരു ടെർമിനൽ വീഴുമെന്നും മറ്റൊരു ടെർമിനലിലെ മർദ്ദം ഉയരുമെന്നും അത് ഒരു നിശ്ചിത തലത്തിലേക്ക് ഉയരുമ്പോൾ ഷിഫ്റ്റിംഗ് നിർത്തേണ്ടതായും നിങ്ങൾ കാണുന്നു അതിനാൽ സിലിണ്ടറിലുടനീളം ഒരു നിശ്ചിത അളവിലുള്ള സമ്മർദ്ദം എത്തുന്നു അതെ അത് കൃത്യമായി കാണിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ മർദ്ദം എയും ഈ മർദ്ദം ബിയും തിരിച്ചറിയുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ തുടർന്ന് ഈ വാൽവ് ഓടിക്കാൻ ഉചിതമായ ഒരു യുക്തി ഉപയോഗിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു നിശ്ചിത അളവിലുള്ള മർദ്ദം വികസിക്കുന്നു ഇപ്പോൾ ഇത് വാൽവുകളെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വാൽവുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും കാരണം നമുക്ക് ആക്റ്റിവേറ്റഡ് വാൽവുകൾക്ക് വിവിധതരം യുക്തികൾ ഉണ്ടെന്ന് കണ്ടു മാത്രമല്ല ഒരു വശത്ത് ഒരു ഇലക്ട്രോമെക്കാനിക്കൽ ആക്യുവേറ്റർ ലോജിക് ഘടകങ്ങളുംആയി ഇന്റർഫേസ് ചെയ്യാൻ പോകുന്നു വാൽവ് ഏത് അവസ്ഥയിലേക്കാണ് നീങ്ങേണ്ടതെന്ന് ഇവ തീരുമാനിക്കുന്നു അതിനാൽ മറുവശത്ത് വാൽവ് നീങ്ങുമ്പോൾ അത് പ്രധാന വാൽവിന് മാറുന്നതിന് ആവശ്യമായ ശക്തി നൽകണം അതിനാൽ രണ്ട് കാര്യങ്ങളുണ്ട് അതിനാൽ വൈദ്യുതി നൽകുന്നതിന് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ചൂവേറ്റ്റ്ററുകൾ നിർമിക്കണം ഇത് വിവിധ രീതികളിൽ ചെയ്യാം ഉദാഹരണത്തിന് ഇത് നേരിട്ട് സോളിനോയിഡ് നയിക്കുന്ന വാൽവാകാം ചില വൈദ്യുതധാരകൾ ഒരു കോയിലിലേക്ക് നയിക്കപ്പെടുന്നു ഇത് ഈ സ്പൂളിനെ വലിക്കുന്നു മറുവശത്ത് ഹൈഡ്രോളിക്സിന്റെ കാര്യത്തിൽ ഇത് നേരിട്ട് പൈലറ്റ് മർദ്ദം കൊണ്ട്പ്രവർത്തിപ്പിക്കാമെന്നും സാധാരണയായി എയർ പൈലറ്റ് ഉപയോഗിക്കാമെന്നും അല്ലെങ്കിൽ രണ്ട് ഘട്ടങ്ങളായ രീതിയിൽ ആകാം അതായത് ഇലക്ട്രിക് സിഗ്നൽ ഒരു പൈലറ്റ് മർദ്ദം നയിക്കുന്ന പോലെ ഒരുതരം ഇലക്ട്രിക് ടു ന്യൂമാറ്റിക് കൺവെർട്ടർ ആയിരിക്കും അതും സാധ്യമാണ് അതിനാൽ വിവിധ മാർഗങ്ങളുണ്ട് സാധാരണയായി ഇലക്ട്രിക് ടു ന്യൂമാറ്റിക് കൺട്രോളർ എന്താണ് ഉപയോഗം കാരണം ഇലക്ട്രിക് സിഗ്നൽ വളരെ ലളിതമായി ജനറേറ്റ് ചെയ്യാനും നമുക്ക് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാനും കഴിയും ഇലക്ട്രിക് സിഗ്നലിലെ വിവിധതരം സിഗ്നൽ പ്രോസസ്സിംഗ് നമുക്ക് സാധ്യമാണ് മാത്രമല്ല സുരക്ഷയുടെ ആവശ്യകതയ്ക്കോ ഉയർന്ന ഊർജ്ജത്തിനായോ ന്യൂമാറ്റിക് സിഗ്നലിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യാറുണ്ട് അതിനാൽ മിക്കപ്പോഴും ഞങ്ങൾക്ക് ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ചൂവേറ്റർറ്ററുകൾ ഉണ്ട് അടിസ്ഥാനപരമായി ഇത് ഒരു സ്ഥിരമായ കാന്തത്തിനും വൈദ്യുതകാന്തികത്തിനുമിടയിലുള്ള വൈദ്യുതകാന്തിക ആകർഷണത്തിലൂടെ പ്രവർത്തിക്കുന്നു അതിനാൽ നിങ്ങൾ ഡ്രൈവ് ചെയ്താൽ ചിലപ്പോൾ ഒരു വൈദ്യുതകാന്തികത്തിനും ഇരുമ്പ് സ്പൂളിനുമിടയിൽ രണ്ടും സാധ്യമാണ് അതിനാൽ വിവിധതരം ഉണ്ടാകാം ആക്ചൂവേറ്റർറ്ററുകൾ ആകാവുന്ന ജ്യാമിതികൾ റോട്ടറി അല്ലെങ്കിൽ ലീനിയർ സാധാരണയായി ആരംഭിക്കുന്ന ശക്തി സ്ട്രോക്ക് ദൈർഘ്യം അത് എത്രത്തോളം നീക്കാൻ കഴിയും നിലവിലെ ആവശ്യകതകൾ എന്നിവ സവിശേഷതകളിൽ ഉൾക്കൊള്ളുന്നു അതിനാൽ സാധാരണഗതിയിൽ വൈദ്യുതധാരയും സ്ഥാന ചലനവും അനുസരിച്ച് ഫോഴ്സ് വ്യത്യാസപ്പെടുന്നു കാരണം അടിസ്ഥാനപരമായി ഇത് ഫ്ലക്സ് വഴിയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഫ്ലക്സ് യഥാർത്ഥത്തിൽ വൈദ്യുതധാരയെ ആശ്രയിച്ചിരിക്കുന്നു കാരണം വൈദ്യുതധാര മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സിനെ തീരുമാനിക്കുകയും അത് ചലനസമയത്ത് മാറിക്കൊണ്ടിരിക്കുന്ന വിടവിനെ ആശ്രയിച്ചിരിക്കുന്ന കൂടാതെ ഫ്ലക്സ് പാതയുടെ വിമുഖതയെയും ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ബലം സവിശേഷതകൾ വൈദ്യുതധാരയെയും സ്ഥാനത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു സാധാരണ സോളിനോയിഡ് വാൽവ് അറിയാം അത് നേരിട്ട് ഒരു സോളിനോയിഡ് വാൽവിലേക്ക് കറന്റ് നയിക്കാൻ കഴിയും അത് സ്പൂളിനെ വലിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഇന്റർഫേസിംഗ് നടത്താം ഇത് കുറച്ചുകൂടി വിശാലമായ കോൺഫിഗറേഷനാണെന്ന് കാണുക അതിനാൽ നിങ്ങൾക്ക് സിഗ്നലുകളുടെ ഇലക്ട്രിക് ഫീഡ്ബാക്ക് ഒന്നുകിൽ സ്ഥാനചലനം ആകാം അതിനാൽ നിങ്ങൾക്ക് സ്ഥാന സെൻസറുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ നിങ്ങൾക്ക് പ്രഷർ സെൻസിംഗ് നടത്താം അതിനാൽ ഈ ഇലക്ട്രിക് ഫീഡ്ബാക്ക് ചില ട്രാൻസ്മിഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന സെൻസറുകളിൽ നിന്നാണ് ലഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ 4 മുതൽ 20 മില്ലിയാംപിയർ വരെ നൽകി ഇത് മറ്റെന്തെങ്കിലും ആകാം തുടർന്ന് അവ ഒരു ഡിജിറ്റൽ കൺട്രോളറിൽ ഏറ്റെടുക്കുന്നു അതിനാൽ ഒടുവിൽ ഡിജിറ്റൽ കൺട്രോളർ വാൽവ്ൻറെ നിയന്ത്രണത്തിനായി പ്രയോഗിക്കേണ്ട ആവശ്യമായ ശക്തി കണക്കാക്കുന്നു അതിനാൽ അത് D ടൂ A കൺവെർട്ടർ വരെയുള്ള ഔട്ട്പുട്ട് ആണ് ഇവ A ടു D കൺവെർട്ടറുകളാണ് കാരണം ഈ സിഗ്നലുകൾ അനലോഗ് ആണ് അതിനാൽ അവ എ മുതൽ ഡി വരെ പരിവർത്തനം ചെയ്യണം ഇത് ഉദാഹരണമായി നമ്മൾ കാണിച്ചത് എന്തെന്നാൽ ഇത് ഒരു ഒരു ഡിജിറ്റൽ ആയി ഉപയോഗിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇതിനെ ഒരു മൈക്രോപ്രൊസസ്സർ എന്ന് പറയാം ഇവയെല്ലാം നിങ്ങൾക്കറിയാം അതിനാൽ ഇതാണ് മൈക്രോപ്രൊസസ്സർ സിപിയു ഇതാണ് മെമ്മറി അതിനാൽ മൈക്രോപ്രൊസസർ ഒടുവിൽ ഒരു ഡിജിറ്റൽ കമാൻഡ് നൽകുന്നു അത് അനലോഗ് കമാൻഡിലേക്ക് പരിവർത്തനം ചെയ്യുന്നു പൊതുവേ യഥാർത്ഥത്തിൽ ഒരു പവർ ആംപ്ലിഫയർ ഉണ്ടാകും കാരണം മൈക്രോപ്രൊസസ്സറിന് സാധാരണയായി ഒരു കോയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അതിനാൽ സാധാരണയായി ഒരാൾക്ക് റിലേകളോ പവർ ആംപ്ലിഫയറുകളോ ഉപയോഗിക്കാം അതിനാൽ ഒടുവിൽ കറന്റ് ഈ ആകർഷണ തത്ത്വം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ ഒരു ഐ 2 പി കൺവെർട്ടർ അഥവാ ഫ്ലാപ്പർ നോസൽ സിസ്റ്റം എന്നും വിളിക്കപ്പെടുന്നവ നിങ്ങൾക്കറിയാം അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഈ കറന്റ് ഒഴുകുന്നുവെങ്കിൽ നീങ്ങാൻ തുടങ്ങും ഇതാണ് ഫ്ലാപ്പർ ഇത് കറൻറ് അനുസരിച്ച് നീങ്ങാൻ തുടങ്ങും അത് നീങ്ങാൻ തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ ഈ വിടവ് വളരെ അതിശയോക്തിപരമായി കാണിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിടവ് വളരെ ചെറുതായി തന്നെ ആണ് അതിനാൽ കാണിക്കാത്തത് സ്ഥിരമായ ഉയർന്ന മർദ്ദമുള്ള ഒരു പൈലറ്റ് മർദ്ദ സ്രോതസ്സും ഉണ്ട് ഇപ്പോൾ നോസലിന്റെ സ്ഥാനം മാറ്റുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക ഈ നോസൽ വളരെ അകലെയാണെങ്കിൽ ഈ പൈലറ്റ് മർദ്ദം ഇവിടെ നിന്ന് പുറത്തുപോയി അന്തരീക്ഷത്തിലേക്ക് പോകും അതിനാൽ ഇവിടെ വികസിക്കുന്ന ഈ സമ്മർദ്ദം ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്ഹോസ്റ്റ് മർദ്ദവും പൈലറ്റ് മർദ്ദവുമുണ്ട് അതിനാൽ ഇവിടെ മർദ്ദം എവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് നോസൽ ഉണ്ട് അതിനാൽ നിങ്ങൾ ഫ്ലാപ്പറിനെ കൂടുതൽ അടുപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ഫ്ലാപ്പർ അടയ്ക്കുകയാണ് അഥവാ നിങ്ങൾ നോസൽ അടയ്ക്കുകയാണ് അതിനാൽ ഇത് പൂർണ്ണമായും അടച്ചിരുന്നുവെങ്കിൽ എന്താണ് സമ്മർദ്ദം എക്സ്ഹോസ്റ്റ് ഇല്ലാത്തതിനാൽ സമ്മർദ്ദം പൈലറ്റ് മർദ്ദം തന്നെ ആകുമായിരുന്നു അത് പൂർണ്ണമായും തുറന്നിരുന്നെങ്കിൽ മർദ്ദം എക്സ്ഹോസ്റ്റ് മർദ്ദത്തിനടുത്തായി വീഴുമായിരുന്നു അതിനാൽ അത് നീങ്ങുമ്പോൾ ഈ ചലനങ്ങൾ മില്ലിമീറ്ററിന്റെ ഭിന്നസംഖ്യകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന സംവേദനക്ഷമത ഉണ്ടാകാം പൈലറ്റ് പോർട്ടിലെ മർദ്ദത്തിന്റെ ഉയർന്ന നേട്ടം കാരണം വാൽവിന് നീങ്ങുവാൻ കഴിയും അതിനാൽ വാൽവുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് അത്തരം ഇന്റർഫേസുകൾ സാധ്യമാണെന്ന് നിങ്ങൾക്കറിയാം